ശരി അതിനാൽ നമുക്ക് വീണ്ടും ലളിതമാക്കുന്ന അനുമാനം കണ്ടക്ടർ വളരെ വളരെ നല്ല ഒരു കണ്ടക്ടറാണ് അതിനാൽ നമുക്ക് പൂർണ്ണമായ വൈദ്യുതചാലകം എന്ന് അനുമാനിക്കാം ആ അനുമാനം നമ്മൾ എന്തിലേക്ക് നയിക്കും നിങ്ങൾ ഈ ജ്യാമിതി ഇവിടെ ഒരു കണ്ടക്ടറിൽ നോക്കുകയാണെങ്കിൽ കറന്റ് എവിടെയാണ് കിടക്കുന്നത് ഉപരിതലത്തിൽ അല്ലേ അതിനാൽ ഇത് ഉപരിതല പ്രവാഹങ്ങൾ ശരിയാണെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ഇവിടെ ഞാൻ ഇതായിരുന്നുവെങ്കിൽ ഇത് തീർച്ചയായും എന്റെ അതിശയോക്തിയാണ് mu നോട്ട് എപ്സിലോൺ നോട്ട് ആണ് ഇവിടെ ഇപ്പോൾ എനിക്ക് ഉപരിതലത്തിലുള്ള കറന്റുകൾ മാത്രമേ ഉണ്ടാകൂ അതിനാൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയും അതിനാൽ ഞാൻ അവയെ ശുദ്ധമായ ഉപരിതല കറന്റ് എന്ന് വിളിക്കാൻ പോകുന്നു അതിനാൽ ആ അവിഭാജ്യത ഇതിലേക്ക് കുറയും ഈ ത്രിമാന ഇന്റഗ്രൽ ഈ 3D ഇന്റഗ്രൽ ആയി കുറയും 2D ഇന്റഗ്രൽ ഉപരിതല ഇന്റഗ്രൽ ആയി മാറും അതിനാൽ ഇത് ഏത് രൂപമായി മാറും അതിനാൽ എനിക്ക് വൈദ്യുത മണ്ഡലം എഴുതാം ഇനി ഇതിൽ എനിക്ക് ഇങ്ങനെ എഴുതാം അതിന്റെ ഒരു ഭാഗവും r ഇല്ല ഒരു ഡെൽറ്റ ഫംഗ്ഷനായി ആഗിരണം ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല അത് ഒരു ശുദ്ധമായ പ്രതലമായി മാറുകയും ചെയ്യുന്നു ഇപ്പോൾ ഇതൊരു 2D ഇന്റഗ്രൽ ആണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റേതെങ്കിലും അനുമാനം നമ്മൾ ഇവിടെ ഈ സമവാക്യം ഉപയോഗിക്കുമ്പോൾ r എന്നത് കണ്ടക്ടറുടെ ഭാഗമായിരിക്കണം അല്ലാത്തപക്ഷം ഈ ബൌണ്ടറി കണ്ടിഷൻ സാധുവായിരിക്കില്ല അതിനാൽ ഇത് പരീക്ഷിക്കുന്നതിന് എനിക്ക് എന്റെ നിരീക്ഷണ പോയിന്റ് എവിടെ നിന്ന് തിരഞ്ഞെടുക്കാനാകും ഞാൻ ഉദ്യേശിച്ചത് ഈ ചോദ്യം എഴുതുന്നതിന് എന്തായിരിക്കും ഏറ്റവും നല്ല തിരഞ്ഞെടുക്കൽ വിദ്യാർത്ഥി ഉപരിതലത്തിൽ ഉപരിതലത്തിൽ ഉപരിതലത്തിൽ എന്താണ് പ്രശ്നം വിദ്യാർത്ഥി 0 അതിനാൽ ഞാൻ ഇത് തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഡോട്ട് ലൈൻ വയർ അച്ചുതണ്ട് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപരിതലത്തിൽ തന്നെ ഇടാം വിദ്യാർത്ഥി ഡോട്ടഡ് ലൈൻ പച്ച ഫംഗ്ഷനുകളുടെ സിംഗുലാരിറ്റി ഒഴിവാക്കാം എന്നതിനാൽ ഡോട്ട് ഇട്ട ലൈൻ മികച്ച തിരഞ്ഞെടുപ്പാണ് കൂടാതെ കണ്ടക്ടറിനുള്ളിൽ ബൌണ്ടറി കണ്ടിഷൻ സാധുവാണ് കൂടാതെ ഫീൽഡ് ടോട്ടൽ ഫീൽഡ് 0 ആണ് അതിനാൽ നമ്മൾ സെന്റർ പോയിന്റ് അച്ചുതണ്ട് തിരഞ്ഞെടുക്കും അതിനാൽ ഇത് വീണ്ടും അതിശയോക്തി കലർന്ന ഡ്രോയിംഗ് ശരിയാണ് അതിനാൽ ഇതാണ് എന്റെ നിരീക്ഷണ പോയിന്റ് ശരിയല്ലേ R ശരിയാകും ഇത് എന്താണ് അതിനാൽ ഇതാണ് ഇവിടെ എന്റെ z അക്ഷം അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന R ന്റെ മൂല്യം എന്താണ് അതിനാൽ R എന്നത് r നും r നും ഇടയിലുള്ള ദൂരമാണെന്ന് ഓർക്കുക അതിനാൽ പ്രൈംഡ് കോർഡിനേറ്റുകൾ നിലവിലെ പദം ശരിയായിരിക്കുന്നിടത്താണ് അതിനാൽ ഇവിടെ എല്ലായിടത്തും മുകളിലേക്കും താഴേക്കും ഒഴുകുന്നു അതിനാൽ അത് പ്രൈംഡ് കോർഡിനേറ്റ് ആണ് അതിനാൽ ഉറവിട പോയിന്റിന്റെ സ്ഥാനം എന്താണ് xyz നിരീക്ഷണ പോയിന്റിന്റെ സ്ഥാനം 00z എന്താണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന നിരീക്ഷണ പോയിന്റ് ഡാഷ് ലൈനിൽ കൂടി ആയിരിക്കും ഇതിന്റെ പോയിന്റുകൾ xyz ആണ് എന്നാൽ ഈ ഉറവിട പോയിന്റുകൾ ഉപരിതലത്തിൽ മാത്രമായിരിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്നു കാരണം ഒരു കറന്റ് പൂർണ്ണമായും ഒരു ഉപരിതല കറന്റ് ആണ് അതിനാൽ ഗ്രീനിന്റെ ഫംഗ്ഷനിൽ Green's function എനിക്ക് r നും rനും ഇടയിലുള്ള അകലമുണ്ട് അതിനാൽ അതാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് അതിനാൽ ഞാൻ എന്റെ നിരീക്ഷണ പോയിന്റ് ഉറപ്പിച്ചുകഴിഞ്ഞാൽ ഈ അവിഭാജ്യഘടകം എവിടേക്കാണ് പോകുന്നത് ഇത് മുഴുവൻ ഉപരിതലത്തിലും കൂടാതെ നീളത്തിലും 2D ഇന്റഗ്രൽ കടന്നുപോകുന്നു അതിനാൽ ഇതുവരെ പൂർണ്ണമായും മായ്ച്ചു എനിക്ക് മറ്റെന്തെങ്കിലും ലളിതമായ അനുമാനം ഉണ്ടാക്കാമോ കാരണം എനിക്ക് 2D ഇന്റഗ്രൽ ഒരു 1D ഇന്റഗ്രലായി കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതാണ് വീണ്ടും പറയൂ വിദ്യാർത്ഥി ദീർഘവൃത്താകൃതിയിൽ ദീർഘവൃത്താകൃതിയിൽ സിമെട്രിക് ശരിയല്ലേ ഈ പ്രശ്നം ദീർഘവൃത്താകൃതിയിൽ സിമെട്രിക് ആണ് അതിനാൽ ഇവയെല്ലാം ഞാൻ പരിഗണിക്കേണ്ടതില്ല എനിക്ക് പ്രത്യേകമായി പരിഗണിക്കാവുന്നതും തുല്യമായതും അതിനാൽ എനിക്ക് ഇത് തുടർന്നും ചെയ്യാൻ കഴിയും കേവലം ഉപരിതല വൈദ്യുതധാര പരിഗണിക്കുന്നതിനുപകരം ഇവിടെ ഒരു ഫിലമെന്ററി കറന്റ് മാത്രം പരിഗണിക്കാം അതിനാൽ മറ്റൊരു ചിഹ്നം ഉപയോഗിക്കുന്നതിന് എനിക്ക് ഇതിനെ ചിലത് എന്ന് വിളിക്കാം ഞാൻ നെ ചിലത് എന്ന് വിളിക്കാം എന്റെ നിരീക്ഷണ പോയിന്റ് ഇവിടെയായിരിക്കും അതിനാൽ R ന്റെ എന്റെ മൂല്യം പോലും മാറുന്നില്ല ഇത് അതുതന്നെയാണോ അതിനാൽ അത് ഇവിടെ ഞാൻ എന്നതിലേക്ക് അവിഭാജ്യമായ ഈ കോണ്ടൂർ തകർക്കും നിങ്ങൾക്ക് ശരിയായി പരിപാലിക്കാൻ കഴിയുന്ന ഈ സ്ഥിരാങ്കങ്ങൾ ദൃശ്യമാകും മുഴുവൻ ഉപരിതലത്തിലും നിർവചിച്ചിരിക്കുന്നതിനാൽ അവിടെയുള്ളതെല്ലാം വിദ്യാർത്ഥി സർ ഇപ്പോൾ നമ്മൾ ഈ എൻഫോഴ്സിങ്ങിന്റെ മൂല്യം കണക്കാക്കി അവർ കണക്കുകൂട്ടുന്നു ഞങ്ങൾ അച്ചുതണ്ടിന്റെ കേന്ദ്ര ബിന്ദുവിൽ ബൌണ്ടറി കണ്ടിഷൻ നടപ്പിലാക്കുന്നു വിദ്യാർത്ഥി മൂല്യങ്ങൾ കണ്ടെത്തുന്നു എന്തിന്റെ മൂല്യം കണ്ടെത്തുന്നു വിദ്യാർത്ഥി I ഇല്ല ഞാൻ കണ്ടക്ടറുടെ ഉപരിതലത്തിൽ ജീവിക്കുന്നത് തുടരുന്നു കാരണം അവിടെയാണ് കണ്ടക്ടറിന്റെ ഉപരിതലത്തെ പിന്തുണയ്ക്കുന്നത് ഞാൻ ഈ സമവാക്യം എന്റെ ഇഷ്ടാനുസരണം നിരീക്ഷണ പോയിന്റുകളിൽ നടപ്പിലാക്കുന്നു അതിനാൽ എനിക്ക് ഉപരിതലത്തിൽ തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ അത് എനിക്ക് ഗ്രീൻസിന്റെ പ്രവർത്തനത്തിൽ Green's function ഒരു ഏകത്വം നൽകും പകരം ഞാൻ സിലിണ്ടറിന്റെ അച്ചുതണ്ട് തിരഞ്ഞെടുക്കുന്നു കാരണം അവിടെ എനിക്ക് എല്ലായ്പ്പോഴും പൂജ്യമല്ലാത്ത ക്യാപിറ്റൽ R ഉണ്ടായിരിക്കും ഇത് നമ്മളുടെ തിരഞ്ഞെടുപ്പാണ് പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള വിധത്തിലാണ് നമ്മൾ ഇത് തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഈ സമവാക്യത്തിന് എന്ത് സംഭവിക്കും അതിനാൽ ഈ സമവാക്യം പിന്നീട് പരിണമിക്കുന്നു എല്ലാ വൈദ്യുതധാരകളും പൂർണ്ണമായി z നിയന്ത്രിക്കുന്നതാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിൽ ലംബമായി ഒരു സ്ക്രൂ ഘടകം ഇല്ല കാരണം ഇത് 2D ഇന്റഗ്രൽ ആയിരുന്നു കൂടാതെ ഇത് ഇപ്പോൾ 1D ഇന്റഗ്രൽ ആണ് വിദ്യാർത്ഥി d z പ്രൈമിന് d z പ്രൈം ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇവിടെ തീർന്നോ ഇത് ഒരു ശുദ്ധമായ ഉപരിതലമാണ് ശരിയല്ലേ അത് എല്ലാവർക്കും ഒരുപോലെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ സമവാക്യം നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽനിങ്ങളും എന്നെപോലെ കോൺഫിഗറേഷൻ ഇതുപോലെയാണെന്ന് വിചാരിക്കും കൂടാതെ എനിക്ക് അവിടെ ഉള്ളതുപോലെ നിങ്ങളും ഒരു സിമെട്രിക് സാഹചര്യം കണക്കണമെന്ന് ഞാൻ പറയും ഞാനിത് വീണ്ടും വരയ്ക്കട്ടെ എന്റെ ഈ കറണ്ട് ഇവിടെയായിരുന്നു ഞാൻ ഇതിനെ ഇങ്ങനെ വിളിച്ചുവെന്ന് കരുതുക ഞാൻ ഒരിക്കൽ ഇട്ടാലും ഇത് ഒരേ ശരിയാണ് എനിക്ക് ഇത് ഒരു നിരീക്ഷണ ലൈനിലേക്കും കറണ്ടിന്റെ ഒരു വരിയിലേക്കും എത്തിച്ചു ഇതാണ് നിരീക്ഷണം കൂടാതെ ഇതാണ് ഉറവിടം ഒരിക്കൽ ഞാൻ ഇത് രണ്ട് വരികളായി ചുരുക്കിക്കഴിഞ്ഞാൽ ഉത്ഭവം എവിടെയാണെന്നത് പ്രശ്നമല്ല കാരണം ഇവിടെ എല്ലായിടത്തും എനിക്ക് ക്യാപിറ്റൽ R ഉണ്ട് ഇത് ഇവ രണ്ടും തമ്മിലുള്ള ദൂരമാണ് അതിനാൽ സമയം റഫർ ചെയ്യുക 1054 കൂടാതെ ഉറവിടം ഇവിടെ നൽകുകയും നിരീക്ഷണം ഇവിടെ നൽകുകയും ചെയ്യാം ഇവിടെ ഒരു സിമെട്രിക് സാഹചര്യമാണ് ഇല്ല നമ്മൾ ഉറവിടവും നിരീക്ഷണവും ഒരേ വരിയിൽ വയ്ക്കുന്നില്ല നമ്മൾ എല്ലായ്പ്പോഴും A കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു ഇപ്പോൾ വിദ്യാർത്ഥി ഇല്ല ശരി അതിനാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഭൌതികശാസ്ത്രമല്ല ഗണിതശാസ്ത്രപരമായി അതിന് തുല്യമാണ് ഭൌതികമായി നിങ്ങൾക്ക് ഇപ്പോഴും ഇതുപോലെ ചിന്തിക്കാൻ കഴിയും അതാണ് നിങ്ങളുടെ ഇന്റഗ്രൽ സമവാക്യം എന്ന് ഞാൻ പറയും അതിന്റെ ഫലമായി ഇവിടെ നമുക്ക് ലഭിച്ചതാണ് അവസാന രൂപം ഈ ഇന്റഗ്രലുകൾ ശരിയാണെന്ന് വിലയിരുത്താൻ ഇത് സഹായിക്കുന്നു അതൊരു വലിയ കാര്യമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയി അത് അടച്ച രൂപത്തിൽ കണക്കാക്കാൻ പോകുന്നില്ല പക്ഷേ ഇത് ഒരു ലളിതവൽക്കരണം മാത്രമാണ് വിദ്യാർത്ഥി z ഉത്ഭവം സഹിതം പോകുന്നു അതെ z അക്ഷത്തിൽ തന്നെ അതാണ് എല്ലാം കൂടാതെ നിരീക്ഷണ പോയിന്റ് ഇപ്പോൾ ഇവിടെനിന്ന് അകലെയാണ് തികച്ചും സിമെട്രിക് സാഹചര്യങ്ങൾ ഏത് വിധേനയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സമവാക്യത്തെ പോക്ക്ലിംഗ്ടണിന്റെ സമഗ്ര സമവാക്യം Pocklington's equation എന്ന് വിളിക്കുന്നു ഇത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അതിനാൽ ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസിലാക്കാം ഞാൻ വളരെ നേർത്ത കണ്ടക്ടർ എന്ന അനുമാനം ഉണ്ടാക്കിയില്ല അപ്പോൾ എനിക്ക് ഒരു 1D ഇന്റഗ്രൽ ലഭിക്കില്ല കോർഡിനേറ്റിലൂടെ ഞാൻ അത് പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ അത് രണ്ട് ഡൈമൻഷൻ ഇന്റഗ്രൽ ആണ് അത് ഒരു പൂർണ്ണ ചാലകമല്ലെന്ന് ഞാൻ കൂടുതൽ അനുമാനം നടത്തിയാൽ വൈദ്യുതധാരകൾ ഉപരിതലത്തിലാണെന്നും അവിടെ വോള്യത്തിൽ നിലനിൽക്കുന്നുവെന്നും എനിക്ക് ഇനി കണക്കാക്കാനാവില്ല അതിനാൽ എനിക്ക് ഒരു പൂർണ്ണ 3D വോളിയം ഇന്റഗ്രൽ ഉണ്ട് അത് പരിഹരിക്കുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനാൽ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ സമഗ്ര സമവാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇവിടെ ഈ സമവാക്യം ഞങ്ങൾ ഒരിക്കൽ കൂടി എഴുതാം അതിനാൽ ഇത് ഇവിടെയുള്ള ഈ എക്സ്പ്രെഷൻ മുഴുവനും ഞാൻ അതിനെ കേർണൽ ചില ക്യാപിറ്റൽ K എന്ന് വിളിക്കാൻ പോകുന്നു അതിനാൽ ഇത് ഇവിടെ ഹ്രസ്വ രൂപത്തിലാണ് അതിനാൽ ഇതൊരു അവിഭാജ്യ സമവാക്യമാണ് ഇത് ഇന്റഗ്രൽ സമവാക്യങ്ങളിലെ മൊഡ്യൂളിൽ ഇല്ലെങ്കിൽ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ കണ്ടു അതിനാൽ MoM ഉപയോഗിച്ച് ഇത് പരിഹരിക്കുന്നതിനുള്ള ആദ്യപടി എന്തായിരിക്കും ഈ സാഹചര്യത്തിൽ J അല്ലെങ്കിൽ I കണ്ടെത്തുക എന്നതാണ് മെത്തേഡ് ഓഫ് മൂവേമെന്റ്സിന്റെ ലക്ഷ്യം അതിനാൽ ഘട്ടം 1 ആയിരിക്കും വിഭിന്നമാക്കുക അതെ ഡിസ്ക്രിറ്റൈസ് ചെയ്യുക അതിനാൽ ഇതാണ് എന്റെ കറന്റ് L2 മുതൽ L2 വരെ ഇത് ഇതുപോലെ മുറിക്കുക അതിനാൽ എനിക്ക് അത് പറയാൻ കഴിയും ഇതിന് ചില സ്ഥിരമായ മൂല്യവും കൂടാതെ ചിലതരം പൾസ് അടിസ്ഥാനവും ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും അതിനാൽ ഇത് ഒരു പൾസ് ആണ് അതിനാൽ ഞാൻ ചെയ്യുന്നത് പൾസ് ബേസിസ് ആണ് അപ്പോൾ നമ്മൾ എന്തുചെയ്യും അടുത്ത ഘട്ടം ഇത് നിങ്ങൾക്കുള്ള ഒരു പുനരവലോകനമായിരിക്കണം ഘട്ടം 2 പരീക്ഷിക്കും വിദ്യാർത്ഥി പരീക്ഷിക്കൽ ഡെൽറ്റ ഫംഗ്ഷൻ വഴിയുള്ള പരീക്ഷിക്കൽ അതെ പരീക്ഷിക്കൽ വഴി അതിനാൽ അത് ഗണിതശാസ്ത്രപരമായി എന്താണ് ഗണിതശാസ്ത്രത്തിൽ ഞാൻ എങ്ങനെ ചെയ്യണം വിദ്യാർത്ഥി ജോലി ചെയ്യുന്നു ശരി അതിനാൽ ഇടതുവശവും വലതുവശവും രണ്ടും z ന്റെ ഫങ്ക്ഷൻ അപ്പോൾ ഞാൻ ഒരു എടുക്കണം അതെ ഏത് കോഓർഡിനേറ്റുകളുമായി ഇന്റഗ്രേറ്റ് ചെയ്യണം dz ശരിയല്ലേ അതിനാൽ ഇത് അല്ലെങ്കിൽ അത് ആനി നിങ്ങളുടെ പൾസ് അടിസ്ഥാനം കൂടാതെ ഡെൽറ്റ ടെസ്റ്റിംഗ് എല്ലാ m നും ഇത് ആവർത്തിക്കുക അത് എനിക്ക് n ക്രോസ് n സമവാക്യങ്ങളുടെ സിസ്റ്റം തരുന്നു അതിനാൽ അത് എന്റെ ഘട്ടം 3 പരിഹരിക്കുന്നു അല്ലെങ്കിൽ അതിനാൽ ഈ അവിഭാജ്യ സമവാക്യങ്ങൾ നിങ്ങൾ ഇതിനകം പഠിച്ചതിനാൽ ഈ ഭാഗം വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ കാണുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മികച്ച തരത്തിലുള്ള അടിസ്ഥാന ഫംഗ്ഷനുകൾ ശരിയായി ചെയ്യാമായിരുന്നു അടിസ്ഥാന ഫംഗ്ഷനുകൾക്കായി നിങ്ങൾക്ക് ത്രികോണ അടിസ്ഥാന ഫംഗ്ഷനുകൾ ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് മുഴുവൻ ഡൊമെയ്ൻ ബേസിസ് ഫംഗ്ഷനുകളും ചെയ്യാമായിരുന്നു ഉദാഹരണത്തിന് ഫ്യൂറിയർ സീരീസ് വിദ്യാർത്ഥി ഫ്യൂറിയർ സീരീസ് ആന്റിന പ്രശ്നങ്ങൾക്കായി നിങ്ങൾക്ക് ഫോറിയർ സീരീസ് ബേസിസ് ഫംഗ്ഷനുകൾ ചെയ്യാമായിരുന്നു ഫോറിയർ സീരീസ് നിങ്ങൾക്ക് നല്ല വേഗത്തിലുള്ള കോൺവെർജൻസ് തരും കാരണം പൊതുവായി തരംഗങ്ങൾ സൈനുസോയ്ഡൽ പോലെ കാണപ്പെടുന്നു കാരണം അവ ട്രാൻസ്മിഷൻ ലൈനിന്റെ പിന്നിൽ നിന്നാണ് വരുന്നത് അതിനാൽ അവ ഇതിനകം തന്നെ സൈനുസോയ്ഡൽ ആണ് ആന്റിന കുറച്ചു വികലമാക്കുന്നു പക്ഷേ വ്യതിയാനം വളരെ കൂടുതലായിരിക്കില്ല അതിനാൽ നിങ്ങൾ ഫോറിയർ സീരീസുകളുമായും മറ്റും വേഗത്തിലുള്ള ഒത്തുചേരൽ നേടുന്നു കൂടാതെ അതിന്റെ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് എന്നിവയ്ക്കായി നിങ്ങൾക്ക് ഡെൽറ്റ ടെസ്റ്റിംഗ് നടത്താം അല്ലെങ്കിൽ നിങ്ങൾ അതേ അടിസ്ഥാന പ്രവർത്തനം ശരിയായി ഉപയോഗിക്കുന്ന ഗലേർകിൻസ് രീതി ചെയ്യാം അതിനാൽ ഫീൽഡ് അങ്ങനെയാണ് ഏതാണ് ചെയ്യേണ്ടതെന്ന് പൊതുവെ MoM നിങ്ങളോട് പറയുന്നില്ല അതിനാൽ MoM ഉപയോഗിച്ച് ഞങ്ങൾ അത് പരിഹരിക്കുന്നു എന്ന് പറയുന്ന ഒരു പേപ്പറോ ടെക്സ്റ്റ് ബുക്കോ നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായിരുന്നു അടിസ്ഥാനമെന്ന് നമ്മൾ ചോദിക്കണം എന്താണ് ടെസ്റ്റിംഗ് അത് ആവശ്യമില്ല അത് എല്ലായ്പ്പോഴും പൾസ് അടിസ്ഥാനവും ഡെൽറ്റ ടെസ്റ്റും ശരിയാണ് അതിനാൽ ഇൻസിഡന്റ് ഫീൽഡ് ഇത് എങ്ങനെ കണക്കാക്കും ഈ വലതു വശം ഇതുവരെ നമ്മൾ ഇതിനെക്കുറിച്ചു കൂടുതൽ വിശദമായി സംസാരിച്ചിട്ടില്ല ശരിയല്ലേ